പകർപ്പവകാശത്തിൻറെ ഒരു ആമുഖ വിവരണമാണ് നമ്മൾ കണ്ടത് എങ്ങനെയാണ് പകർപ്പവകാശനിയമം ഉത്ഭവിച്ചത് എന്നും കാലപരിണിതിയിൽ എങ്ങനെയാണത് വികാസപരിണാമങ്ങളിലൂടെ കടന്നുപോയത് എന്നും നമ്മൾ കണ്ടു ഇനി നമ്മൾ ഇന്ത്യയിലെ പകർപ്പവകാശ സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് ഏറ്റവും തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇന്ത്യൻ കോപ്പി റൈറ്റ്സ് ആക്ട് 1914 ആണ് ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യാനന്തരം കോപ്പി റൈറ്റ് ആക്ട് ഓഫ് 1957 നിലവിൽ വന്നു 1957ലെ കോപ്പിറൈറ്റ് ആക്ട് ഇന്ത്യൻ കോപ്പി റൈറ്റ് നിയമങ്ങളെ ഏകീകരിക്കുകയും ബേൺ കൺവെൻഷനിലെ നിബന്ധനകളെ ഉൾക്കൊള്ളുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ നിയമ വ്യവസ്ഥയോടുകൂടെ ചില കൂട്ടിച്ചേർക്കലുകൾ നടന്നു കോപ്പി റൈറ്റ് അമെൻമെൻറ് ആക്ട് 2012 2012ലെ ഈ അമെൻമെൻറ് ആക്ട് പകർപ്പവകാശ നിയമത്തിൽ അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പുരോഗതികളെയും ഉൾക്കൊള്ളുകയും ഗ്രന്ഥകാരന്മാരുടെയും നിർമ്മാതാക്കളുടേയും അവകാശവും ഉപഭോക്താക്കളുടെ അവകാശവും സമതുലിതമായി കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമൊരു സംതുലിതമായ നിലപാടിനെ കുറിച്ച് ആക്ട് വളരെ കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ പെർഫോമേഴ്സിൻറെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ചില വ്യവസ്ഥകളും നിർബന്ധിത ലൈസൻസ് വഴി വർക്കുകൾ ലഭ്യമാക്കാനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പകർപ്പവകാശ നിയമത്തിൻറെ അധികാരപരിധി ഇന്ത്യ മുഴുവനിലേക്ക് വ്യാപിപ്പിച്ചു മിക്കവാറും എല്ലാ സൃഷ്ടികളുടെയും പകർപ്പവകാശ കാലാവധി എന്ന് പറയുന്നത് സൃഷ്ടികർത്താവിൻറെ ജീവിതകാലവും മരണശേഷം 60 വർഷവുമാണ് ഏതു വർഷമാണ് ഗ്രന്ഥകർത്താവ് മരിക്കുന്നത് അതു മുതൽ 60 വർഷം കൂടി പകർപ്പവകാശം സംരക്ഷിക്കപ്പെടുന്നു പകർപ്പവകാശത്തിൻറെ കാലാവധി എന്ന് പറയുന്നത് ഗ്രന്ഥകർത്താവിൻറെ ജീവിതകാലവും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു പകർപ്പവകാശത്തിൻറെ ഉടമസ്ഥന് അച്ചടിക്കാനും പ്രസാധനം ചെയ്യാനും കോപ്പികൾ വിൽക്കാനും അവകാശമുണ്ട് വർക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻറെ നിർവ്വചനത്തിൽ ലിറ്റററി ഡ്രമാറ്റിക് മ്യൂസിക്കൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ സൃഷ്ടികളും ഉൾക്കൊള്ളുന്നു ഇതുകൂടാതെ സിനിമാറ്റോഗ്രാഫ് ഫിലിം സൌണ്ട് റെക്കോർഡിങ് ഇവയും ഉൾക്കൊള്ളുന്നുണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന സൃഷ്ടികളും ഉണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ചു ചേർന്ന് ഉണ്ടാക്കുന്ന സൃഷ്ടികളും ഉണ്ട് വർക്ക് ഓഫ് ജോയിൻറ് ഓതർഷിപ്പിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടോ അതിൽ കൂടുതലോ ഗ്രന്ഥകാരൻമാരോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ ഒന്നിച്ചുചേർന്നു നിർമ്മിക്കുന്നതും ഒരാളുടെ സംഭാവന മറ്റൊരാളുടെ സംഭാവനയിൽ നിന്നും വ്യത്യസ്തമല്ലാതിരിക്കുന്നതും ആയ നിർമ്മാണങ്ങൾക്കാണ് വർക്ക് ഓഫ് ജോയിൻറ് ഓതർഷിപ്പ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് 3 പാട്ടുകാർ വ്യത്യസ്തങ്ങളായ മൂന്ന് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു പാട്ട് പാടുന്നത് ഇത് ഒരു വർക്ക് ഓഫ് ജോയിൻറ് ഓതർഷിപ്പാണ് കാരണം നമുക്ക് ഒരാളുടെ വർക്കിനെ അഥവാ സംഭാവനയെ മറ്റൊരാളുടെ വർക്കിൽ നിന്നും അഥവാ സംഭാവനയിൽ നിന്നും വേർതിരിക്കാനോ മാറ്റി നിർത്താനോ സാധിക്കുകയില്ല തൊട്ടുമുൻപ് നമ്മൾ പറഞ്ഞത് ഒരിക്കൽകൂടി ആവർത്തിക്കുകയാണ് കോപ്പിറൈറ്റ് അവകാശം സംരക്ഷിക്കുന്നത് ഒറിജിനൽ ലിറ്റററി വർക്സ് ഡ്രമാറ്റിക് വർക്സ് മ്യൂസിക്കൽ വർക്സ് ആർട്ടിസ്റ്റിക് വർക്സ് സിനിമാറ്റോഗ്രാഫ് ഫിലിം സൌണ്ട് റെക്കോർഡിങ് എന്നിവയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മറ്റു ചില പ്രത്യേക സൃഷ്ടികളെയും പകർപ്പവകാശനിയമം സംരക്ഷിക്കുന്നുണ്ട് ഉദാഹരണം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം പ്രസാധനം ചെയ്ത സൃഷ്ടി അതിൻറെ ഓതർ ഒരു ഇന്ത്യൻ പൌരൻ ആണെങ്കിൽ ഇന്ത്യ മുഴുവനും അത് സംരക്ഷിക്കപ്പെടുന്നു ഓതർ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഒരു സാഹിത്യസൃഷ്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അതിൻറെ എഴുത്തുകാരനും ഒരു സംഗീതത്തിൻറെ കാര്യത്തിലാണെങ്കിൽ അത് കമ്പോസ് ചെയ്ത ആളും അതായത് ഗാനരചയിതാവും ഒരു കലാസൃഷ്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അത് ഉണ്ടാക്കിയ കലാകാരനും ആണ് ഓതർ എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സൃഷ്ടി നടത്തിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആൾ എന്ന അർത്ഥത്തിലാണ് ഒരു ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലാണെങ്കിൽ ആ ഫോട്ടോ എടുത്ത വ്യക്തിയും ഒരു സിനിമയുടെയോ ശബ്ദ ചിത്രീകരണത്തിൻറേയോ കാര്യത്തിലാണെങ്കിൽ അതിൻറെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ നിർമാതാവും ആണ് അതിൻറെ ഓതേഴ്സ് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു നിർമാണ പ്രവർത്തനം ആണെങ്കിൽ ആരാണോ ആ പ്രവർത്തി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്തത് അദ്ദേഹമാണ് ഇവിടെയും ഓതർഷിപ്പ് സൃഷ്ടി അഥവാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു